ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ രേഖീയമല്ലാത്ത ടു പോർട്ട് ഘടകങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ ഇൻക്രിമെന്റൽ വിശകലനം നടത്താമെന്ന് നോക്കാം ഇപ്പോൾ ഒരു പോർട്ട് എലമെന്റ് ഉപയോഗിച്ച് നമുക്ക് സമവാക്യം എഴുതാമെന്നും തുടർന്ന് ടെയ്ലർ സീരീസിലെ നോൺ ലീനിയാരിറ്റിയെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റും വികസിപ്പിക്കാമെന്നും ഉയർന്ന ഓർഡർ നിബന്ധനകൾ അവഗണിക്കാമെന്നും ഞങ്ങൾ കണ്ടു എന്നാൽ അവസാനമായി ഞങ്ങൾ പതിവായി ചെയ്യുന്ന കാര്യമല്ല ഓരോ നോൺ ലീനിയർ ഘടകത്തിനും ഞങ്ങൾ ചെയ്തത് ഇൻക്രിമെന്റൽ ചിത്രത്തിൽ സാധുതയുള്ള ഒരു തുല്യത ഞങ്ങൾ കൊണ്ടുവന്നു ടു ടെർമിനൽ നോൺ ലീനിയാരിറ്റിക്ക് അത് റെസിസ്റ്ററാണ് ഒരു ഡയോഡ് പോലെയുള്ള രണ്ട് ടെർമിനൽ നോൺ ലീനിയർ മൂലകം അത് റെസിസ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ടു പോർട്ട് നോൺ ലീനിയാരിറ്റിക്ക് തുല്യമായത് എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ ഇൻക്രിമെന്റൽ സർക്യൂട്ടിൽ ഈ തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് ഞങ്ങൾ രണ്ട് പോർട്ടുകളും മാറ്റിസ്ഥാപിക്കുന്നു ഇത് തീർച്ചയായും സാധുതയുള്ളതാണ് ചെറിയ സിഗ്നൽ വർദ്ധനവിന് മാത്രം വിശകലനവുമായി മുന്നോട്ട് പോകുക നിർവചനം അനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന തത്തുല്യമായതെന്തും രേഖീയമായിരിക്കും കാരണം ഞങ്ങൾ എല്ലാ ഉയർന്ന ഓർഡർ നിബന്ധനകളും അവഗണിക്കും ഇതാണ് രണ്ട് പോർട്ട് നോൺലീനിയാരിറ്റി ഇവയാണ് വോൾട്ടേജുകളും വൈദ്യുതധാരകളും ഇപ്പോൾ I1 I2 എന്നിവ V1 V2 എന്നിവയുടെ ചില ഫംഗ്ഷനുകളാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഞങ്ങൾ ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുത്തുവെന്ന് പറയട്ടെ ഞാൻ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ V10 V20 എന്നിങ്ങനെ നിർവചിക്കുന്നു ഒപ്പം കറന്റ് I10 I20 നിങ്ങൾക്ക് ഇത് പല തരത്തിൽ ചിന്തിക്കാം നിങ്ങൾക്ക് V10 V20 എന്നീ വോൾട്ടേജ് ഉറവിടങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും ഇവ നിങ്ങൾക്ക് I10 and I20 എന്നീ വൈദ്യുതധാരകൾ നൽകുന്നു പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ ഈ നോൺ ലീനിയർ എലമെന്റ് ഉണ്ടെന്ന് അത് അങ്ങനെയായിരിക്കണമെന്നില്ല ചില പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ വിശകലനം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നിടത്ത് നിങ്ങൾ നോൺ ലീനിയർ സമവാക്യങ്ങൾ പരിഹരിച്ച് പരിഹാരം കണ്ടെത്തി വോൾട്ടേജുകളുടെയും വൈദ്യുതധാരകളുടെയും സംയോജനമാണ് V10 V20 I10 I20 എന്നിവ അടിസ്ഥാനപരമായി നിങ്ങൾ വിശകലനം ചെയ്യുന്ന ആദ്യ പോയിന്റാണിത് എന്നാൽ ഇത് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെയുള്ള ഒന്നായി കണക്കാക്കാം തുടർന്ന് നിങ്ങൾക്ക് ഈ വോൾട്ടേജുകളിൽ വർദ്ധനവ് പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഈ നോൺലീനിയാരിറ്റിയുടെ നിർവചനം അനുസരിച്ച് I10 f1V10V20 ന് തുല്യമായിരിക്കണം കാരണം ഇവ ഏത് വോൾട്ടേജുകൾക്കും വൈദ്യുതധാരകൾക്കും സാധുതയുള്ളതാണ് അതിനാൽ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വ്യക്തമായി സത്യമായിരിക്കണം കൂടാതെ I20 f2V10 V20 ആയിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റും കുറച്ച് ഇൻക്രിമെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് സങ്കൽപ്പിക്കാം V10 Δ V1 ആയി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ് V20 Δ V2 എന്നിങ്ങനെ മാറുന്നു നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷേ അത് അങ്ങനെയാകണമെന്നില്ല ഇത് ഇവിടെ പ്രയോഗിക്കുന്ന വോൾട്ടേജ് സ്രോതസ്സല്ല ഏതെങ്കിലും കാരണത്താൽ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ നിങ്ങൾക്ക് V10 Δ V1 അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ലോവർ കേസ് v1 ഉപയോഗിക്കുന്ന ഒരു പുതിയ വോൾട്ടേജുകളും വൈദ്യുതധാരകളും ഉണ്ടാകും കൂടാതെ V20 Δ V2 കൂടാതെ വൈദ്യുതധാരകൾ I10 Δ I1 ആയിരിക്കും ചിലപ്പോൾ ചെറിയക്ഷരം i1 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ഒപ്പം I20 Δ I2 അതിനാൽ അത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് മാറ്റാമെന്ന് മാത്രമാണ് പറയുന്നത് തീർച്ചയായും വീണ്ടും ഈ വോൾട്ടേജുകളും വൈദ്യുതധാരകളും ഈ ബന്ധങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അത് രേഖീയമല്ലാത്തതിനെ നിർവചിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് വ്യവസ്ഥകളുണ്ട് കൂടാതെ ഇൻക്രിമെന്റുകൾക്കൊപ്പം ഞങ്ങൾക്ക് വ്യവസ്ഥകളും ഉണ്ടാകും ഇപ്പോൾ മിതമായ പ്രവർത്തനം വളരെ ലളിതമാണ് ഇതുവരെ ഞങ്ങൾ പുതിയതൊന്നും ചേർത്തിട്ടില്ല ഞങ്ങൾ ചെയ്തത് പുതിയ വോൾട്ടേജുകളും വൈദ്യുതധാരകളും യഥാർത്ഥ ഓപ്പറേറ്റിംഗ് പോയിന്റ് വോൾട്ടേജുകളും വൈദ്യുതധാരകളും കൂടാതെ ചില വർദ്ധിച്ച അളവുകളും പ്രകടിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ബന്ധങ്ങൾ ഒരു ടെയ്ലർ സീരീസ് വികസിപ്പിക്കും ഇത് തീർച്ചയായും രണ്ട് വേരിയബിളുകളുടെ ടെയ്ലർ സീരീസ് ആയിരിക്കും അവ അവരുടെ സ്വന്തം എഴുത്തിലൂടെ വളരെ ഉപയോഗപ്രദമാണ് പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല അതിനാൽ നമ്മൾ അറിയേണ്ടത് നമ്മൾ വിപുലീകരിക്കട്ടെ ഒരു ടെയ്ലർ സീരീസിലെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ടെയ്ലർ സീരീസിലെ f2 ന്റെ അതേ ഹോൾഡായി ഞാൻ f1 എടുക്കും അതിനാൽ നമുക്ക് എന്ത് ലഭിക്കും ഇത് ശരിയായ പ്രവർത്തന പോയിന്റായി മാറും അതിനാൽ ഞാൻ അങ്ങനെ എഴുതട്ടെ ടെയ്ലർ സീരീസ് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് സ്ഥിരമായ നിബന്ധനകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേരിയബിളുകളെ ആശ്രയിച്ചുള്ള ഒരു ഫസ്റ്റ് ഓർഡർ വേരിയബിളുകളെ ആശ്രയിച്ചുള്ള രണ്ടാമത്തെ ഓർഡർ എന്നിവ ഉണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് രണ്ട് വേരിയബിളുകൾ ഉണ്ട് അതിനാൽ V1 തവണ Δ V1 മായി ബന്ധപ്പെട്ട് ഈ ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആയ ഓരോ വേരിയബിളുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവുകളുള്ള ഇവയായിരിക്കും ആദ്യ ഓർഡർ നിബന്ധനകൾ കൂടാതെ ഈ ഭാഗിക ഡെറിവേറ്റീവ് പ്രവർത്തന പോയിന്റിൽ വിലയിരുത്തേണ്ടതുണ്ട് കാരണം വോൾട്ടേജുകളും വൈദ്യുതധാരകളും അനുസരിച്ച് ഡെറിവേറ്റീവ് തന്നെ മാറുന്നു കൂടാതെ നിങ്ങൾക്ക് V2 നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവും Δ V2 എന്ന ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വിലയിരുത്തപ്പെടും ഇവ ലീനിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പദങ്ങളാണ് ഇവ വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ ലീനിയർ ആണ് അതായത് ഇൻക്രിമെന്റൽ വോൾട്ടേജ് Δ V1 അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ വോൾട്ടേജ് Δ V2 തുടർന്ന് നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ നിബന്ധനകൾ ഉണ്ടാകും ഞങ്ങൾ അവയെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ΔV12 ന് ആനുപാതികമായ നിബന്ധനകളും Δ V22 ഉള്ളതും കൂടാതെ എന്തെങ്കിലും ΔV1 ΔV2 ഉം മറ്റും ഉണ്ടാകും അതിനാൽ ഇവയെല്ലാം അടിസ്ഥാനപരമായി ഉയർന്ന ഓർഡർ നിബന്ധനകളാണ് തീർച്ചയായും ഞങ്ങൾ അവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം ഞങ്ങൾ ഇത് എന്ത് ചെയ്യുന്നു ഞങ്ങൾ അവരെ അവഗണിക്കുന്നു ΔV1 ന്റെ ചെറിയ മൂല്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കണ്ടെത്താനാകുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു കാരണം ഇവ ഇതിലും ചെറുതാണ് കാരണം ആശയം ഇനിപ്പറയുന്നതാണ് ΔV1 വളരെ ചെറുതാണെങ്കിൽ എന്തിനെയെങ്കിലും അപേക്ഷിച്ച് ΔV12 അതിലും ചെറുതാണ് ഇപ്പോൾ ഇത് ഡൈമൻഷൻ വേരിയബിൾ ഉപയോഗിച്ച് കാണാൻ തുടങ്ങി പക്ഷേ നിങ്ങൾക്ക് ഒരു അളവില്ലാത്ത അളവിനെക്കുറിച്ച് ചിന്തിക്കാം ഒരു അളവ് x 1 മുതൽ 0 വരെ പോകും x2 നും 1 മുതൽ 0 വരെ പോകാനാകും എന്നാൽ വളരെ വേഗത്തിൽ കാരണം x12 ആയിരിക്കുമ്പോൾ x2 0 25 മാത്രമാണ് കൂടാതെ x പത്തിലൊന്ന് ആയിരിക്കുമ്പോൾ x സ്ക്വയർ ഇതിനകം നൂറിലൊന്ന് എന്നിങ്ങനെയാണ് x ക്യൂബ് കൂടുതൽ വേഗത്തിൽ താഴേക്ക് പോകും അത്രമാത്രം അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ΔV1 ΔV2 എന്നിവയുടെ വലുപ്പത്തിൽ ചില പരിധികൾ സ്ഥാപിക്കാവുന്നതാണ് അതിനാൽ ഈ ഉയർന്ന ഓർഡർ നിബന്ധനകൾ നിസ്സാരമാണ് ഈ ഇൻക്രിമെന്റൽ ചെറിയ സിഗ്നൽ വിശകലനത്തിനുള്ള പരിധികൾ നിർവചിക്കുന്നതിനുള്ള ഒരേയൊരു മാർഗ്ഗമാണിത് അത് രേഖീയമല്ലാത്തതിനെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്പറേറ്റിംഗ് പോയിന്റിനെയും മറ്റും ആശ്രയിച്ചിരിക്കുന്നു അവഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അർത്ഥമാക്കുന്നത് ΔV1 ഉം ΔV2 ഉം വേണ്ടത്ര ചെറുതാണ് അതിനാൽ ഇവ അവഗണിക്കാം ഇപ്പോൾ അവരെ അവഗണിച്ചതിന് ശേഷം ഞാൻ എന്തുചെയ്യും ഈ I10 എന്നത് f1V10 V20 അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് ഇവിടെ നിന്നാണ് വരുന്നത് അതിനാൽ ആ ഭാഗം രണ്ട് വശങ്ങളിൽ നിന്നും റദ്ദാക്കുന്നു മുമ്പത്തെ പോലെ ഒരു പോർട്ട് എലമെന്റുമായി എനിക്ക് വർദ്ധിച്ച അളവിലുള്ള ΔI1 ΔV1 ΔV2 എന്നിവ തമ്മിൽ ബന്ധമുണ്ട് ΔI1 ഉം ΔV1 ഉം ΔV2 ഉം തമ്മിലുള്ള ബന്ധമാണ് എനിക്കുള്ളത് ഇത് രേഖീയ സംയോജനമാണ് ΔI1 എന്നത് ΔV1 ΔV2 എന്നിവയുടെ രേഖീയ സംയോജനമാണ് ΔI2 ന് സമാനമായ കാര്യങ്ങൾ സംഭവിക്കുന്നു ഞാൻ അത് ആവർത്തിക്കേണ്ടതില്ല ഇവിടെ f1 എന്നതിനുപകരം നിങ്ങൾക്ക് f2 ഉണ്ടായിരിക്കും എന്നതൊഴിച്ചാൽ ഇത് കൃത്യമായ അതേ പദപ്രയോഗമാണ് നിങ്ങൾ V1 നെയും V2 നെയും സംബന്ധിച്ച് f2 നെ ഭാഗികമായി വേർതിരിക്കുകയും പ്രവർത്തന പോയിന്റുകളിൽ ഭാഗിക ഡെറിവേറ്റീവുകളുടെ മൂല്യങ്ങൾ കണ്ടെത്തുകയും വേണം അതിനാൽ നോൺ ലീനിയർ ടു പോർട്ടിന്റെ ഇൻക്രിമെന്റൽ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം ഇനിപ്പറയുന്നതാണ് അതിനാൽ ΔI1 എന്നത് പ്രവർത്തന പോയിന്റ് സമയങ്ങളിൽ V1 ന്റെ ഭാഗിക ഡെറിവേറ്റീവുകളായിരിക്കും ΔV1 പ്രവർത്തന പോയിന്റ് സമയങ്ങളിൽ ΔV1 ന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ ആയിരിക്കും അതുപോലെ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ V1 നെ സംബന്ധിച്ചുള്ള f2 ന്റെ ഭാഗിക ഡെറിവേറ്റീവുകളാണ് അതിനാൽ ΔI1 എന്നത് ΔV1 ΔV2 എന്നിവയുടെ രേഖീയ സംയോജനമാണ് ΔI2 എന്നത് ΔV1 ΔV2 എന്നിവയുടെ രേഖീയ സംയോജനമാണ് ഇപ്പോൾ ഞങ്ങൾ V1 V2 എന്നിവ സ്വതന്ത്ര വേരിയബിളുകളായി തിരഞ്ഞെടുക്കുമ്പോൾ നോൺ ലീനിയാരിറ്റി പ്രകടിപ്പിക്കുന്നു അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല I1 ഉം I2 ഉം സ്വതന്ത്ര വേരിയബിളുകളാകാം അല്ലെങ്കിൽ ഇത് I1 V2 അല്ലെങ്കിൽ V1 I2 എന്നിവയുടെ മിശ്രിതമാകാം അപ്പോൾ ഈ ഭാഗിക ഡെറിവേറ്റീവുകൾക്ക് വ്യത്യസ്ത അളവുകൾ ഉണ്ടായിരിക്കും അത് മാത്രമാണ് അതിൽ ഉള്ളത് പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഈ ഫോം നിലനിർത്തും രേഖീയമല്ലാത്തതിന്റെ വ്യത്യസ്ത പ്രാതിനിധ്യം ഉണ്ടെങ്കിൽപ്പോലും ചെറിയ സിഗ്നൽ പ്രാതിനിധ്യം എളുപ്പത്തിൽ കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇപ്പോൾ തീർച്ചയായും ഈ സമവാക്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ΔV1 ΔV2 എന്നീ വോൾട്ടേജുകളും ΔI1 ΔI2 എന്നീ പോർട്ട് കറന്റുകളുമുള്ള ഒരു ലീനിയർ ടു പോർട്ട് ആണ് ഇവയെല്ലാം നിങ്ങൾ ലീനിയർ ടു പോർട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇവ ΔI2 is y11 Δ V1 y12 ΔV2 ആയി പ്രകടിപ്പിക്കും കൂടാതെ ΔI2 എന്നത് ΔI2 is y21 ΔV1 y22 ΔV2 ആണ് അതിനാൽ നിങ്ങൾക്ക് വോൾട്ടേജുകൾ സ്വതന്ത്ര വേരിയബിളുകളായും വൈദ്യുതധാരകൾ ആശ്രിത വേരിയബിളുകളായും ഉള്ളപ്പോൾ അവയുമായി ബന്ധപ്പെട്ട പാരാമീറ്ററുകളുടെ കൂട്ടം അത് y പാരാമീറ്ററുകൾ എന്നറിയപ്പെടുന്നു ചിലപ്പോൾ നിങ്ങൾ അവയെ മെട്രിക്സ് രൂപത്തിലും പ്രകടിപ്പിക്കുന്നു കൂടാതെ നൊട്ടേഷൻ y11 y12 y21 y22 എന്നിവയാണ് ഇവിടെ ആദ്യ സംഖ്യ ΔI1 ആയ ഫലത്തെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് കാരണത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ΔI1 ൽ ΔV2 ന്റെ ഫലത്തെ y12 ബന്ധപ്പെടുത്തുന്നു വ്യക്തമായും ഈ y പാരാമീറ്ററുകളും ഈ ഭാഗിക ഡെറിവേറ്റീവുകളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ V1 നെ സംബന്ധിച്ചിടത്തോളം y11 വ്യക്തമായും f1 ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് അതുപോലെ y12 എന്നത് V2 നെ സംബന്ധിച്ചുള്ള f1 ന്റെ ഭാഗികമായ ഡെറിവേറ്റീവ് ആണ് അതുപോലെ ഈ രണ്ടിനും അതിനാൽ നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത് ലീനിയർ ടു പോർട്ട് നെറ്റ്വർക്കാണ് രണ്ട് ടെർമിനൽ മൂലകമോ ഒരു പോർട്ട് ഘടകമോ ആണെങ്കിൽ നമുക്ക് ഒരു റെസിസ്റ്റർ ലഭിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ലീനിയർ ടു പോർട്ട് നെറ്റ്വർക്കുണ്ട് കൂടാതെ ഒരു ലീനിയർ ടു പോർട്ട് നെറ്റ്വർക്കിനായി ഞങ്ങൾ ഉപയോഗിച്ചതിന് തുല്യമാണ് സർക്യൂട്ട് ഇക്വലന്റും ഇപ്പോൾ ഈ പരാമീറ്ററുകൾ ചെറിയ സിഗ്നൽ y പരാമീറ്ററുകൾ എന്നറിയപ്പെടുന്നു വ്യക്തമായ കാരണത്താൽ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റുകൾ തമ്മിലുള്ള ലീനിയർ ബന്ധം ഇവ നിങ്ങളോട് പറയുന്നതിനാൽ വേണ്ടത്ര ചെറുതായ ഇൻക്രിമെന്റുകൾക്ക് മാത്രമാണ് ലീനിയർ ബന്ധം നിലനിർത്തുന്നത് അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നതാണ് ഒരു സർക്യൂട്ടിൽ ഒരു നോൺ ലീനിയർ ടു പോർട്ട് കണ്ടുമുട്ടുമ്പോൾ ഏതെങ്കിലും നോൺ ലീനിയർ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധാരണ ബുദ്ധിമുട്ടായി ഉള്ള രീതിയിൽ ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് ലഭിക്കും നമുക്ക് പ്രവർത്തന പോയിന്റ് ലഭിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ് നമ്മൾ ചെയ്യുന്നത് നോൺ ലീനിയർ ടു പോർട്ടിന് പകരം ഒരു ലീനിയർ ടു പോർട്ട് ഉപയോഗിച്ച് രണ്ട് പോർട്ടുകളുടെ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് അവ ഒന്നുമല്ല ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വലിയ സിഗ്നൽ സ്വഭാവത്തിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവുകളാണ്